ചാലകങ്ങളുടെ റെസിപ്രോസിറ്റി തിയറം II ഒരു ഉദാഹരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെസിപ്രോസിറ്റി തിയറത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒരു ഉദാഹരണം ഈ തിയറത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി ചർച്ച ചെയ്ത് വിശകലനം ചെയ്യുകയും ചെയ്തു ചാർജ് ഡെൻസിറ്റി സർഫേസ് ചാർജ് ഡെൻസിറ്റി പൊട്ടൻഷ്യൽ ഇവയെല്ലാം കൃത്യമായി അറിയാവുന്ന ഒരു ചാർജ് വിന്യാസം എടുത്ത് റെസിപ്രോസിറ്റി തിയറം പ്രയോഗിച്ച് മറ്റൊരു ചാർജ് വിന്യാസം കാരണമുള്ള ചാർജ് ഡെൻസിറ്റി പൊട്ടൻഷ്യൽ ഇവ കാണുകയാണ് നാം ചെയ്യുന്നത് റെസിപ്രോസിറ്റി തിയറം അനുസരിച്ച് അതായത് ഈ തിയറം ഒരു അവസ്ഥയിലെ ചാർജ് വിന്യാസം പൊട്ടൻഷ്യൽ ഇവയെ മറ്റൊരു അവസ്ഥയിലെ ചാർജ് വിന്യാസം പൊട്ടൻഷ്യൽ ഇവയുമായി ബന്ധപ്പെടുത്തുന്നു നേരത്തെ ചർച്ച ചെയ്ത ഉദാഹരണത്തിൽ നമ്മൾ ഒരു ഗോളാകൃതിയിലുള്ള ചാലകത്തിനു സമീപം കേന്ദ്രത്തിൽ നിന്നും d ദൂരത്തിൽ ഒരു ചാർജ് Q വെച്ചു ഇന്നിവിടെ ഞാൻ മറ്റൊരു ഉദാഹരണം എടുക്കാം ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ അല്പം പരാമർശിച്ചിരുന്നു ഇവിടെ ഞാൻ അനന്തമായി നീണ്ടു കിടക്കുന്ന ഒരു ചാലകം അഥവാ കണ്ടക്ടർ എടുക്കുകയാണ് ഇതിന്റെ ഒരു വശം ഗ്രൌണ്ട് ചെയ്തിട്ടുണ്ട് അഥവാ എർത്ത് ചെയ്തിട്ടുണ്ട് ഇത്തരം ചാലകത്തിന്റെ സമീപത്തായി ഒരു ചാർജ് Q വെച്ചിട്ടുണ്ട് ഇതേ പ്രശനം നമ്മൾ നേരത്തെ ഇമേജ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നമ്മൾ കണ്ടിരുന്നു ഇതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ചാർജ് കൃത്യമായി Q ആണെന്നും അതുകൊണ്ടുതന്നെ ഈ പ്രശ്നത്തിനുത്തരം കണ്ടെത്താനായി Q ചാർജ് അതായത് ഇമേജ് ചാർജ് ഇതിന്റെ പിറകുവശത്തായി വെച്ചാൽ മതി എന്നുമാണ് അപ്പോൾ ചാലകത്തിന്റെ ആകെ പൊട്ടൻഷ്യൽ സീറോ ആയിത്തീരും അടുത്ത ചോദ്യം Q ചാർജിന്റെ ഒരു വശത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൌണ്ട് ചെയ്ത അനന്തമായി നീണ്ടു കിടക്കുന്ന ഒരു ചാലകം വെച്ചതിനു പുറമെ മറുവശത്തുകൂടെ ഗ്രൌണ്ട് ചെയ്ത അനന്തമായി നീണ്ടു കിടക്കുന്ന ഒരു ചാലകം വെച്ചാൽ എന്ത് സംഭവിക്കുമെന്നാണ് രണ്ടാമത് വെച്ച ഈ ചാലകത്തിലും Q ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുമോ അതോ മറ്റെന്തെങ്കിലും സംഭവിക്കുമോ ഇവിടെ പ്രശ്നം അൽപ്പം സങ്കീർണമാണ് നമുക്കിത് വിശദമായി നോക്കാം ഇവിടെ ചാർജിന്റെ ഒരു വശത്ത് ഗ്രൌണ്ട് ചെയ്ത ഒരു ചാലകം വെച്ചിട്ടുണ്ട് ചാർജിന്റെ എതിർ വശത്തും മറ്റൊരു ചാലകം വെച്ചിരിക്കുന്നു ചാർജ് Q രണ്ടു ചാലകത്തിന്റെയും പിൻവശത്ത് ഇമേജ് ചാർജ് Q ഉണ്ടാക്കുന്നു ഇവ വീണ്ടും ഇമേജ് Q ഉണ്ടാക്കുന്നു അങ്ങനെ ഇത് തുടരുന്നു അതായത് ഇത് അനന്തമായ ഒരു സീരീസ് ആയി മാറുന്നു ഇത് തമ്മിൽ കൂട്ടി ഫലം കണ്ടെത്തുക അസാധ്യമാണ് അതിനർത്ഥം മെത്തേഡ് ഓഫ് ഇമേജസ് ഉപയോഗിച്ച് ഇത്തരം രണ്ടു പ്രതലങ്ങളിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള അവസ്ഥ കൈകാര്യം ചെയ്യുക അസാധ്യമാണെന്നർത്ഥം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ റേസിപ്രോസിറ്റി തിയറം വളരെ സഹായകരമാണ് ഇത് കാര്യങ്ങൾ കൂടുതൽ സുഗമമാക്കുന്നു ഈ തിയറം ഇവിടെ പ്രയോഗിക്കുന്നതിനായി ഞാൻ രണ്ടു വ്യത്യസ്ത സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്നു ഒന്ന് യഥാർത്ഥത്തിലുള്ള അതായത് നമുക്ക് പരിഹാരം കണ്ടെത്താനുള്ള പ്രശ്നവും മറ്റൊന്ന് കൃത്യമായ റിസൾട്ട് അറിയാവുന്ന സമാനമായ അവസ്ഥയും അപ്പോൾ ഞാനിവിടെ രണ്ടു ചാലകങ്ങൾ എടുക്കുകയാണ് ഒന്ന് ചാലകം 1 മറ്റൊന്ന് ചാലകം 2 ഇവ രണ്ടും ഗ്രൌണ്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ടു പ്ലേറ്റുകളും തമ്മിലുള്ള ദൂരം d എന്നിരിക്കട്ടെ ഇവക്കിടയിൽ ഒന്നാമത്തെ പ്ലേറ്റിൽ നിന്നും x0 ദൂരത്തിൽ ചാർജ് Q വച്ചിട്ടുണ്ട് അടുത്തതായി ഈ പ്ലേറ്റുകളിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ചാർജുകൾ എത്രയുണ്ടെന്ന് അറിയണം അടുത്തതായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനോട് സമാനമായി കൃത്യമായ റിസൾട്ട് അറിയാവുന്ന മറ്റൊരു സന്ദർഭം സങ്കല്പിക്കാം ഇവിടെ രണ്ടു ചാലകങ്ങൾ എടുത്ത് ഒന്ന് ഗ്രൌണ്ട് ചെയ്ത് മറ്റേതിന് V പൊട്ടൻഷ്യൽ നൽകുകയാണ് പ്ലേറ്റുകൾ തമ്മിലുള്ള ദൂരം ഇവിടെയും d തന്നെയാണ് അപ്പോൾ പൊട്ടൻഷ്യൽ V ആയിട്ടുള്ള പ്ലേറ്റിൽ നിന്നും രണ്ടാമത്തെ പ്ലേറ്റിലേക്ക് അഥവാ d ദൂരത്തേക്ക് നീങ്ങുമ്പോൾ പൊട്ടൻഷ്യൽ 0 ആകുന്നുവെന്നർത്ഥം കാരണം രണ്ടാമത്തെ പ്ലേറ്റ് ഗ്രൌണ്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇലക്ട്രിക്ക് ഫീൽഡ് ലൈൻസ് അഥവാ വൈദ്യുത മണ്ഡല രേഖകൾ യൂണിഫോം അഥവാ സമമാണ് അപ്പോൾ ഒന്നാമത്തെ പ്ലേറ്റിൽ നിന്നും x ദൂരത്തിലുള്ള പൊട്ടൻഷ്യൽ ഇതനുസരിച്ച് x 0 ആകുമ്പോൾ V V ആകുന്നു അതുപോലെ x d ആകുമ്പോൾ V 0 ആകുന്നു ഇവക്കിടയിൽ V ആനുപാതികമായി മാറുന്നു ഇതാണ് റിസൾട്ട് നന്നായി അറിയാവുന്ന നേരത്തെ റെസിപ്രോസിറ്റി തിയറത്തിൽ പരാമർശിച്ച രണ്ടാമത്തെ അവസ്ഥ റെസിപ്രോസിറ്റി തിയറത്തിലേക്കാവശ്യമായ നമുക്കറിയാവുന്ന ഈ പൊട്ടൻഷ്യൽ V2 എന്നിരിക്കട്ടെ അപ്പോൾ ചാർജ് ഡെൻസിറ്റി 𝜌2 0 ആണല്ലോ സർഫേസ് ചാർജ് ഡെൻസിറ്റി 𝜎2 എത്രയായിരിക്കും ഒരു പ്ലേറ്റിൽ 𝜎2 വും മറ്റേതിൽ 𝜎2 വും ലഭിക്കുന്ന വിധത്തിൽ എടുത്താൽ ഇവിടെ E2 എന്നത് ഇവക്കിടയിലുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് ആണ് നിങ്ങളിതെല്ലാം 12th ഗ്രേഡിൽ കപ്പാസിറ്ററിനെ കുറിച്ചുള്ള ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞതാണല്ലോ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ സന്ദർഭത്തിൽ നമുക്ക് രണ്ടു പ്ലേറ്റിലെയും സർഫേസ് ചാർജ് ഡെൻസിറ്റി 𝜎1 𝜎1 ʹ കണ്ടുപിടിക്കണം രണ്ടു പ്ലേറ്റിലെയും ചാർജ് ഡെൻസിറ്റി ഒരേ പോലെ ആവണമെന്നില്ല അതാണ് 𝜎1 ʹ എന്ന് എടുത്തത് കണ്ടുപിടിക്കേണ്ട മറ്റൊന്ന് V1 ആണ് എന്നാൽ നിങ്ങൾക്കറിയാം V1 0 ആണെന്ന് അതായത് ഉപരിതല പൊട്ടൻഷ്യൽ സീറോ ആണ് കാരണം പ്ലേറ്റുകൾ രണ്ടും ഗ്രൌണ്ട് ചെയ്തിരിക്കയാണ് എന്നാൽ വോളിയം ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് വോളിയത്തിലെ ചാർജ് ആണ് ഒന്നാമത്തെ ചാലകത്തിൽ ഒറിജിൻ എടുത്താൽ നിങ്ങൾക്കറിയാം y0 z 0 ഇവ സീറോ ആയിരിക്കുമെന്ന് അപ്പോൾ ഇക്വേഷൻ കുറച്ചുകൂടെ ലളിതമാകുന്നു അതായത് അടുത്തതായി 𝜎1 𝜎1 ʹ ഇവ കാണുകയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം ഇവിടത്തെ ചിന്തന വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായി വ്യക്തമായല്ലോ നമുക്ക് ഇവിടെ രണ്ടു സ്ഥിതിവിശേഷമാണുള്ളത് ഒന്ന് സന്ദർഭം 1 അതായത് യാഥാർത്ഥമായുള്ള അവസ്ഥ മറ്റൊന്ന് സന്ദർഭം 2 അതായത് നമ്മൾ റെസിപ്രോസിറ്റി തിയറം പ്രയോഗിക്കാനായി കൃത്രിമമായുണ്ടാക്കിയെടുത്ത അവസ്ഥ ഈ രണ്ടാമത്തെ അവസ്ഥയിലെ എല്ലാ റിസൾട്ടും നമുക്കറിയാവുന്നതാണ് ഇവ ഉപയോഗിച്ച് നമ്മൾ ഒന്നാമത്തെ അവസ്ഥയിലെ റിസൾട്ട് കാണാൻ ശ്രമിക്കുകയാണ് ഇതിനായി നമ്മൾ റെസിപ്രോസിറ്റി തിയറം ഇവിടെ പ്രയോഗിക്കാൻ പോകയാണ് ഈ തിയറം അനുസരിച്ച് ഇതിൽ V1 എത്രയെന്നു അറിയില്ല പക്ഷെ നമുക്കറിയാം 𝜌2 0 ആണെന്ന് അതുകൊണ്ടു ഒന്നാമത്തെ പദം സീറോ ആകുന്നു സന്ദർഭം 1 ൽ ഉപരിതലത്തിലെ പൊട്ടൻഷ്യൽ സീറോ ആണ് അതായത് രണ്ടു പ്ലേറ്റിലെയും V1 surface 0 അപ്പോൾ ഇക്വേഷന്റെ ഇടതുവശത്തുള്ള രണ്ടാമത്തെ പദവും സീറോ ആകുന്നു വലതുവശത്തുള്ള ഒന്നാമത്തെ പദത്തിൽ അടുത്തത് ഇക്വേഷന്റെ വലതു വശത്തുള്ള രണ്ടാമത്തെ പദം ഇതിൽ സന്ദർഭം 2 വിൽ രണ്ടു പ്ലേറ്റിലെയും V2 surface കാണണം നമുക്കറിയാം ഒന്നാമത്തെ പ്ലേറ്റിലെ V2 surface V കോൺസ്റ്റന്റ് ആണെന്ന് ഇത് ഇന്റെഗ്രേലിന്റെ പുറത്തേക്കെടുക്കാം 1 ds q 1 അഥവാ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ചാർജ് എന്നെടുക്കാം രണ്ടാമത്തെ പ്ലേറ്റിലെ V2surface 0 ആയിരിക്കും ഇതെല്ലം ചേർത്തെഴുതുമ്പോൾ ഇക്വേഷൻ ഇവിടെ x എന്നത് x 0 എന്നെടുക്കുമ്പോൾ അതായത് അപ്പോൾ ഒരു കാപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിൽ ഒന്നാമത്തെ പ്ലേറ്റിൽ നിന്നും x0 ദൂരത്തിൽ ചാർജ് Q ഉണ്ടെങ്കിൽ ആ പ്ലേറ്റിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ചാർജ് ഇവിടെ d x0 രണ്ടാമത്തെ പ്ലേറ്റിൽ നിന്നും ചാർജിലേക്കുള്ള ദൂരമാണ് അതുപോലെ രണ്ടാമത്തെ പ്ലേറ്റിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ചാർജ് ഇവിടെ നിങ്ങൾ റെസിപ്രോസിറ്റി തിയറത്തിന്റെ മറ്റൊരു അപ്ലിക്കേഷൻ കൂടി അതായത് എങ്ങനെ ഈ തിയറം ഉപയോഗിച്ച് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ചാർജ് കാണുന്നത് എന്നുകൂടി കണ്ടു കഴിഞ്ഞു